കഴിഞ്ഞ നാല് ക്ലാസുകളിൽ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പേശി സൃഷ്ടിക്കുന്ന ശക്തിയെ എങ്ങനെ വിലയിരുത്താം ഇൻ വിട്രോ സജ്ജീകരണത്തിൽ ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് കോശങ്ങളെ വളർത്തുമ്പോൾ അഭിമുഖീകരിക്കുന്ന വളരെ രസകരമായ മറ്റൊരു വെല്ലുവിളിയെ കുറിച്ച് സംസാരിക്കാം എനിക്ക് ഉറപ്പുണ്ട് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന കോശങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും ഒരു കോശത്തെ അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയിൽ നിന്ന് എടുത്ത ഒരു നാഡി കോശത്തെ കൾച്ചർ ഡിഷിൽ ഗ്ലിയൽ കോശങ്ങൾ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന മറ്റുതരത്തിലുള്ള കോശങ്ങളുടെ അസാനിധ്യത്തിൽ വളർത്തുമ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയാണിത് നമ്മൾ കൾച്ചർ ഡിഷിൽ നിക്ഷേപിക്കുന്ന ഭൂരിഭാഗം കോശങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിപ്പോകാമ്പൽ ന്യൂറോണുകൾ ആണെന്നിരിക്കട്ടെ അപ്പോൾ ഹിപ്പോകാമ്പലിൽ നിന്ന് നിങ്ങൾ ന്യൂറോണുകൾ പുറത്തെടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൾച്ചർ ഡിഷിൽ വളരുന്ന ഇത്തരത്തിലുള്ള നല്ല പിരമിഡൽ ന്യൂറോണുകൾ ആണ് ഇത്തരം കൾച്ചറുകളിൽ ഉള്ള അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂറോണുകൾ ആക്ഷൻ പൊട്ടൻഷ്യൽ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നതാണ് അവ ആക്ഷൻ പൊട്ടൻഷ്യൽ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ആ കോശങ്ങൾ ഉപയോഗശൂന്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി സജീവമായ ന്യൂറോണുകൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതുപോലെ ഇലക്ട്രിക്കലി സജീവമല്ലാത്ത കോശങ്ങൾ ചെയ്യണമെന്നില്ല അതായത് അവയിൽ ആവശ്യമായ സോഡിയം ചാനലുകൾ പൊട്ടാസ്യം ചാനലുകൾ സോഡിയം പൊട്ടാസ്യം എ ടി പി യേസ് പമ്പുകൾ എന്നിവ പ്രകടമാകണം സോഡിയം ചാനലുകളിൽ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉള്ളവ വേഗത്തിൽ സജീവമാവുന്നവയും കാർഡിയാക് സിസ്റ്റത്തിലെ പേസ്മേക്കർ കോശങ്ങളിൽ ഉള്ളവ വളരെ സാവധാനത്തിൽ സജീവമാകുന്നവയും ആണ് ഈ പറഞ്ഞവയെല്ലാം ഡിഫറെൻസിയേഷനിൽ നടക്കണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഒരു കൾച്ചറിലെ ന്യൂറോണുകളുടെ ഇലക്ട്രിക്കൽ ഡിഫറെൻസിയേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു കൾച്ചർ ഡിഷിലെ ഉത്തേജന യോഗ്യമായ കോശങ്ങളുടെ ഇലക്ട്രിക്കൽ ഡിഫറെൻസിയേഷൻ എന്നുപറയാം അപ്പോൾ ഈ ഭാഗത്തിൽ ഞാൻ മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളെ എടുക്കാം അവ എങ്ങനെ സാധ്യമാകുന്നു എന്നും നോക്കാം ഫീറ്റൽ ദിവസം 18 ആയ എലികളിൽ നിന്ന് ശുദ്ധമായ ഹിപ്പോകാമ്പൽ ന്യൂറോണുകൾ വളർത്തിയെടുക്കാനുള്ള വഴികളിലൊന്ന് പലരും ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഈ കോശങ്ങളെ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ നേരിയ അളവിൽ അതായത് 25 മൈക്രോ മോളാർ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ അളവിൽ 20 മൈക്രോ മോളാർ അതുമല്ലെങ്കിൽ 10 മൈക്രോ മോളാർ ഗ്ലൂട്ടാമേറ്റ് ചേർത്തുകൊടുക്കും ഗ്ലൂട്ടാമേറ്റ് ഭൂരിഭാഗം നാഡീവ്യൂഹത്തിന്റെയും ഹിപ്പോകാമ്പൽ ന്യൂറോണുകളുടെയും ആവേശകരമായ ന്യൂറോട്രാൻസ്മിറ്ററാണ് അപ്പോൾ നിങ്ങൾ ഹിപ്പോകാമ്പൽ ന്യൂറോണുകൾ തരംതിരിക്കുക യാണെങ്കിൽ അവ രണ്ട് വിഭാഗത്തിൽ പെടും ഒന്നുകിൽ അവ ഗ്ലുട്ടാമേറ്റർജിക് ആയിരിക്കും അല്ലെങ്കിൽ GABAർജിക് ആയിരിക്കും ഒരു ചെറിയ വിഭാഗം കോളിനെർജിക് ആയിരിക്കും പ്രത്യേകിച്ച് E 18 ക്ഷമിക്കണം F18 ഫീറ്റൽ സ്റ്റേജിൽ ഉള്ളവ അതിനാൽ ഇപ്പോൾ ഗ്ലുട്ടാമേറ്റർജിക് ന്യൂറോണുകളാണ് ഗ്ലൂട്ടാമേറ്റിനെ ന്യൂറോ ട്രാൻസ്മിറ്ററായി സ്രവിക്കുന്നത് GABAർജിക് പുറപ്പെടുവിക്കുന്നത് GABA ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കോളിനെർജിക് സ്രവിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് അസറ്റൈൽകോളിൻ F 18 കൾച്ചർ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ നേരിയ അളവിൽ 20 മുതൽ 25 മൈക്രോ മോളാർ ഗ്ലൂട്ടാമേറ്റ് ചേർക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ മേൽസൂചിപ്പിച്ച ചാനലുകൾ പ്രകടമാകുന്നതിലും അത്തരം ചില ചാനലുകളുടെ ഡിഫറെൻസിയേഷൻ സാധ്യമാക്കുന്നതിനും ഗ്ലൂട്ടാമേറ്റ് സഹായിക്കുന്നു മാത്രവുമല്ല അവയുടെ ഉപരിതലത്തിലെ ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്ററുമായി ബന്ധിച്ച് ഒരു ഉത്തേജനം സാധ്യമാക്കുന്നു അപ്പോൾ ഇതാണ് ഉപയോഗിക്കാവുന്ന ഒരു സങ്കേതികവിദ്യ ഈ സമാനമായ സങ്കേതികവിദ്യ E 14 മോട്ടോർ ന്യൂറോണുകളെ വൈദ്യുതപരമായി ഉത്തേജിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഗ്ലൂട്ടാമേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഗ്ലൂട്ടാമേറ്റിന്റെ അളവ് ഒരല്പം കൂടിപ്പോയാൽ അവ കോശങ്ങളിൽ വിഷാംശം ആയി പ്രവർത്തിക്കും അപ്പോൾ നമ്മൾ തീർച്ചയായും അതിശയപ്പെട്ടേക്കാം ശരീരത്തിൽ ഇത്തരം വിഷാംശങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് എപ്പിലെപ്സി പോലെ അമിത ഉത്തേജനം സംഭവിക്കുന്ന രോഗങ്ങളിൽ ഇത് നടക്കാറുണ്ട് സാധാരണഗതിയിൽ ഇത് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്നുവെച്ചാൽ നമ്മുടെ ന്യൂറോണുകൾക്ക് ചുറ്റും നിരവധി ഗ്ലിയൽ കോശങ്ങൾ ഉണ്ട് മാത്രമല്ല ഈ ഗ്ലിയൽ കോശങ്ങൾക്ക് ഒട്ടേറെ കഴിവുകൾ ഉണ്ട് അവ എണ്ണത്തിൽ വളരെ അധികവും ആണ് അപ്പോൾ ഈ ഗ്ലിയൽ കോശങ്ങൾ ഉത്തേജനം സൃഷ്ടിക്കുന്ന ആ ന്യൂറോട്രാൻസിസ്റ്ററുകളെ വളരെ വേഗത്തിൽ സിസ്റ്റത്തിൽ നിന്ന് വലിച്ച് നീക്കം ചെയ്യുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്ലിയൽ കോശങ്ങൾ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇവിടെ ഗ്ലിയൽ കോശങ്ങളുണ്ട് ഇവിടെ ന്യൂറോണുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഗ്ലിയൽ കോശങ്ങൾ ഇല്ലാത്ത തീർത്തും ശുദ്ധമായ കൾച്ചർ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിങ്ങൾ ചേർക്കുന്ന ഗ്ലൂട്ടാമേറ്റിന്റെ അളവ് കോശങ്ങളെ തകരാറിലാക്കാൻ മാത്രം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അളവ് കുറവാണെങ്കിൽ അത് കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ഇല്ല ഈ മാതൃകയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചർച്ചചെയ്യാൻ ആഗ്രഹിച്ചത് അടുത്ത മാതൃകയെ കുറിച്ചുള്ള പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കൾച്ചർ ഡിഷിൽ ഗ്ലിയൽ കോശങ്ങൾ ചേർക്കുമ്പോൾ കോശങ്ങളുടെ ഇലക്ട്രിക്കൽ ഉത്തേജനം സംഭവിക്കുന്നത് മറ്റൊരു രസകരമായ പഠനം ഇങ്ങനെയാണ് ഈ കോശങ്ങൾ ഒരു മൈക്രോ ഇലക്ട്രോഡ് അറേ ക്ക് മുകളിൽ വളർത്തിയെടുക്കുന്നു ഈ ന്യൂറോണൽ കോശങ്ങൾക്ക് മുകളിൽ നിങ്ങൾ ഗ്ലിയൽ കോശങ്ങൾ ചേർക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗ്ലിയൽ കോശങ്ങളുണ്ട് അതിനുമുകളിൽ നിങ്ങൾ ഹിപ്പോകാമ്പൽ ന്യൂറോണുകൾ നിക്ഷേപിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഗ്ലിയൽ കോശങ്ങൾ ന്യൂറോണുകളിലെ വിവിധതരം അയോൺ ചാനലുകളുടെ പ്രകടനത്തെ എങ്ങിനെ സഹായിക്കുന്നു എന്ന് കൂടാതെ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുടെ പരമ്പരയെയും അപ്പോൾ ഞാൻ ആദ്യത്തെ മാതൃകയിൽ പറഞ്ഞത് ഗ്ലുട്ടാമേറ്റ് ചേർക്കുന്ന രീതിയെ കുറിച്ചാണ് അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി രണ്ടാമത്തെ മാതൃകയിൽ ഞാൻ പറഞ്ഞത് അത് ഗ്ലിയൽ കോശങ്ങൾ ചേർത്തു കൊടുക്കലാണ് എന്നാൽ ഗ്ലിയൽ കോശങ്ങൾ ചേർത്തു കൊടുക്കുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഗ്ലിയൽ കോശങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവ വിഭജിക്കുന്ന കോശങ്ങൾ ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവയെ ചേർത്തു കൊടുക്കേണ്ടതുണ്ട് രണ്ടാമതായി ന്യൂറോണുകളെ അധികം ബാധിക്കാത്ത എന്നാൽ ഗ്ലിയൽ കോശങ്ങളുടെ അമിതമായ വ്യാപനത്തെ തടയുന്ന ഒരു മീഡിയം നിങ്ങൾ ഇവിടെ വികസിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ മീഡിയത്തിൻറെ കാര്യത്തിൽ ഒരു സന്തുലനാവസ്ഥ പാലിക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന മീഡിയം ഗ്ലിയൽ കോശങ്ങളുടെ എണ്ണം അമിതമായി വർധിപ്പിക്കരുത് അത് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി യെ ബാധിക്കുന്നു ഒരുപാട് പോഷകങ്ങൾ അവ ഉപയോഗപ്പെടുത്തുകയും ന്യൂറോൺ കോശങ്ങൾക്ക് ലഭിക്കാതെ വരികയും ചെയ്യും രണ്ടാമതായി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഗ്ലിയ കോശങ്ങളുടെ മെത്തയ്ക്കു മുകളിൽ ന്യൂറോണുകൾക്ക് പൂർണമായി വളരാനും കണക്റ്റിവിറ്റി സൃഷ്ടിക്കാനും സാധിക്കുന്നുണ്ടോ എന്നതാണ് അപ്പോൾ ഇതാണ് ഏകദേശം കഴിഞ്ഞ 20 വർഷങ്ങളായി ആൾക്കാർ അഭിമുഖീകരിക്കുന്ന വളരെ രസകരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി അത്ഭുതകരമായ ചില പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഇൻ വിട്രോ സജ്ജീകരണങ്ങൾ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇതേ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കഥ കൂടുതൽ സങ്കീർണമാകും മുതിർന്ന ന്യൂറോണൽ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് ഹിപ്പോകാമ്പൽ അല്ലെങ്കിൽ സുഷുമ്നാ ന്യൂറോണുകളെ ഇലക്ട്രിക്കലി എങ്ങനെ ഉത്തേജിപ്പിക്കും എന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ രൂപപ്പെട ലിന്റെ വളരെ പ്രാരംഭ ദശയിലാണ് കോശങ്ങളിൽ ഈ അയോൺ ചാനലുകൾ ഉണ്ടാകുന്നത് നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ മിക്കവാറും ന്യൂറോണുകൾ ഈ വൈകല്യം നേടിയെടുക്കും നമുക്കറിയാം ശരീരത്തിൽ ഈ ന്യൂറോണുകൾ വിഭജിക്കുന്നില്ല എന്നാൽ കൾച്ചർ ഡിഷിൽ അവ വിഭജിക്കുന്നു പക്ഷേ പരസ്പര വിരുദ്ധമായ തെളിവുകൾ നിലനിൽക്കുന്നതിനാൽ നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കില്ല എങ്കിലും ഹിപ്പോകാമ്പൽ ന്യൂറോണുകളിൽ ഭൂരിഭാഗവും മോട്ടോർ ന്യൂറോണുകളും വിഭജിക്കുന്നില്ല അതായത് ഒരിക്കൽ ഇവ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് വിഭജനം സംഭവിക്കുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മുതിർന്ന ന്യൂറോൺ എടുക്കുന്നു ഇത്തരത്തിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് ഡിഷിൽ കിട്ടുക ഈ മുതിർന്ന ന്യൂറോണുകൾ ഇത്തരത്തിലുള്ള വളർച്ച കളെ പുറത്തേക്ക് വിടും ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ കൾച്ചർ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ കോശങ്ങൾ വളർച്ചകൾ പുറപ്പെടുവിക്കുന്നു പരസ്പരം ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു എല്ലാം സംഭവിക്കുന്നു എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നുവെച്ചാൽ ഇവയെല്ലാം സമയബന്ധിതമായി നടക്കണം അങ്ങിനെ നടക്കണമെങ്കിൽ ഈ കോശങ്ങൾ അവയുടെ രൂപപ്പെടലിന്റെ പ്രാരംഭദശയിൽ അനുഭവിച്ച അതെ അവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കണം അതിനാൽ നിങ്ങൾക്ക് ഇത് നേടാൻ കഴിയുന്ന ഒരു മെനു സൃഷ്ടിക്കേണ്ടതുണ്ട് ഇത് ഒരു നിസ്സാര കാര്യമല്ല ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻവിട്രോ സിസ്റ്റങ്ങളിലൊന്നിൽ ഞാനും അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണിത് ഞങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രിക്കലി സജീവമായ സുഷുമ്നാ കോശങ്ങളുടെ കൾച്ചർ ആണ് അതായത് ഈ കോശങ്ങൾ ഇലക്ട്രിക്കൽ പ്രവർത്തനം പ്രകടമാക്കണം അത് നേടിയെടുക്കാൻ സാധിക്കുന്ന വഴികളിലൊന്ന് ഈ പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിക്കാം ആദ്യമായി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുതിർന്ന വെൻട്രൽ ഹോണിൽ നിന്നുള്ള മുതിർന്ന സുഷുമ്നാ കോശങ്ങളുടെ കൾച്ചർ സ്ഥാപിച്ചെടുത്തു അവിടെ ധാരാളം മോട്ടോർ ന്യൂറോണുകൾ ഉണ്ടായിരിക്കും കൂടാതെ ഇവിടെ ചില ഗ്ലിയൽ കോശങ്ങളും ഇന്റർ ന്യൂറോണുകളുമുണ്ട് അപ്പോൾ ഈ കോശങ്ങളെ രണ്ടുമാസത്തോളം കൾച്ചറിൽ അതി ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചു ആദ്യം ഞങ്ങൾ സജ്ജമാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടു മാസം അതായത് 60 ദിവസം അവയെ വളരാൻ അനുവദിച്ചു ആദ്യത്തെ 30 ദിവസം കഴിയുമ്പോൾ കോശങ്ങൾ കൾച്ചർ വെല്ലിൽ നല്ല രീതിയിൽ സുസ്ഥിരമായി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ചേർക്കുന്നു ഒരിക്കൽ ഈ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും പാളിച്ചകളിലൂടെയും ഞങ്ങൾക്ക് കടന്നുപോകേണ്ടിവന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ഗ്ലൂട്ടാമേറ്റ് സെറോടോണിൻ എന്നിവ ചേർക്കുന്നു ഇവ നാഡീവ്യവസ്ഥയുടെ വികാസത്തിന് സഹായിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് അഞ്ചു ദിവസത്തിന് ശേഷം അതായത് മുപ്പത്തിയഞ്ചാം ദിവസം അസറ്റൈൽകോളിൻ എന്ന മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഞങ്ങൾ ചേർക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ന്യൂറോണുകളെ താൽക്കാലികമായി കണ്ടീഷനിംഗ് ചെയ്യുകയായിരുന്നു ഒരു കൾച്ചർ ഡിഷിൽ താൽക്കാലികമായി മാത്രം നിങ്ങൾക്ക് അതിനെ ടെമ്പറൽ ന്യൂറോട്രാൻസ്മിറ്റർ കണ്ടീഷനിംഗ് എന്നുവിളിക്കാം ഇലക്ട്രിക്കൽ പ്രവർത്തനം വീണ്ടെടുക്കുന്നതിനായി നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ ന്യൂറോണുകളെ കണ്ടീഷനിംഗ് ചെയ്യുന്നു ഭൂരിഭാഗം കോശങ്ങളും ഇലക്ട്രിക്കലി സജീവമായിരുന്നില്ല അപ്പോൾ ഇവിടേയ്ക്ക് വീണ്ടും തിരിച്ചു വരാം അതിനുശേഷം ഈ കോശങ്ങളെ വീണ്ടും 15 ദിവസം വളരാൻ അനുവദിച്ചു ഏകദേശം 40 50 ദിവസം ആയപ്പോൾ ഞങ്ങൾ അവയുടെ ഇലക്ട്രിക്കൽ പ്രവർത്തനം വിലയിരുത്താൻ തുടങ്ങി ഈ ഘട്ടത്തിലെ ന്യൂറോണുകളിൽ ഭൂരിഭാഗവും ഒന്നിലധികം ആക്ഷൻ പൊട്ടൻഷ്യൽ സൃഷ്ടിക്കും എന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക കൾച്ചറൽ മാതൃകയിൽ ചേർക്കപ്പെട്ട ഒരു പുതിയ വിഭാഗം കണ്ടുപിടുത്തങ്ങൾ ആയിരുന്നു ഇവ ഇൻ വിട്രോ കൾച്ചർ സിസ്റ്റങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെ അടുക്കാൻ കഴിയും ഭ്രൂണ കോശങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എന്ത് നേടാനാകും ഭ്രൂണ കോശങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നേടിയെടുക്കുന്നത് പ്രായ സംബന്ധിയായ രോഗങ്ങളുടെ യഥാർത്ഥ മാതൃകയായി എടുക്കാൻ കഴിയില്ല അപ്പോൾ പ്രായവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് പ്രായവുമായി പൊരുത്തപ്പെടുന്ന സംവിധാനങ്ങൾ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ മുതിർന്ന കോശങ്ങൾ മുതിർന്ന ഉത്തേജന യോഗ്യമായ ന്യൂറോണുകൾ വളർത്തുമ്പോൾ നിങ്ങൾ നേരിടുന്ന ചില വെല്ലുവിളികൾ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങൾ എല്ലായ്പ്പോഴും നൂതന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല കാരണം യഥാർത്ഥത്തിൽ ഇവയെല്ലാം പിന്തുടരാത്ത മോഡലുകളും മാതൃകകളും ആണ് നിങ്ങൾ ഈ രീതികൾ ചെയ്യുന്ന ആദ്യത്തെ ആൾ ആകുമ്പോൾ വളരെയധികം വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതുണ്ടെന്നും കാര്യങ്ങൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ന്യൂറോട്രാൻസ്മിറ്റർ കണ്ടീഷനിംഗ് അത്തരം ഒരു ആശയമാണ് കാരണം ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വച്ചാൽ നിങ്ങൾ ടിഷ്യുവിൽ നിന്ന് കോശങ്ങളെ വേർതിരിച്ച് മുതിർന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അവയെ വളർത്തുമ്പോൾ കോശങ്ങളിൽ നിന്നുള്ള എല്ലാ വളർച്ചകളും വിച്ഛേദിക്കപ്പെടുന്നു സെൽ ബോഡിയിൽ നിന്ന് ഇത് ഏക എന്റിറ്റി ആയാണ് പുറത്തുവരുന്നത് മാത്രമല്ല അതിന് അനുബന്ധ വളർച്ചകളെ വീണ്ടും സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ കോശങ്ങൾ വളരെ ദുർബലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വളരെ ദുർബലം അവയെ വളർത്തിയെടുക്കുക അത്രയെളുപ്പമല്ല ഇത്തരം ചില സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു അര ദശകത്തിലേറെക്കാലം 5 മുതൽ 7 വർഷം വരെ എടുത്തു ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂറോട്രാൻസ്മിറ്ററുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഈ കോശങ്ങൾ വളരെ ദുർബലമാണ് അവ അമിതമായി ഉത്തേജിക്കപ്പെടാം അവയ്ക്ക് വളരെ എളുപ്പത്തിൽ കേടുവരുകയോ പരിക്കേൽക്കുകയോ ചെയ്യാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു മാതൃക ഉണ്ടാക്കിയെടുത്തത് അവയെ കുറച്ചുസമയം അതായത് കാര്യമായ ഒരു കാലയളവ് വളരാൻ അനുവദിക്കാൻ നമ്മൾ പറഞ്ഞു അതിനാൽ സിസ്റ്റവുമായി യോജിപ്പിക്കുന്നതിനുമുമ്പ് ഏകദേശം 3 മുതൽ 4 ആഴ്ച വരെ അവയെ വളരാൻ ഞങ്ങൾ അനുവദിക്കുന്നു ഇത്തരത്തിൽ ഒരുപാടുനാൾ ന്യൂറോണുകളെ വളർത്തുന്നത് അത്ര നിസ്സാര കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവയെല്ലാം നടപ്പിലാക്കാൻ അതിയായ പരിശ്രമം ആവശ്യമുണ്ട് എന്നാൽ ഇൻവിട്രോ ബയോളജി അല്ലെങ്കിൽ ഇൻവിട്രോ സെൽ കൾച്ചർ മേഖല വളരെ സാവധാനം ചലിക്കുന്ന ഒന്നാണ് എഞ്ചിനീയറിംഗ് പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നുവരുന്ന ധാരാളം സാങ്കേതികവിദ്യകൾ വരും വർഷങ്ങളിൽ ഈ മേഖലയുടെ മുഴുവൻ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാം ഞാൻ ഇതിനുശേഷം എന്തുചെയ്യും നിങ്ങൾക്ക് രണ്ട് പേപ്പറുകൾ കൂടി നൽകും അപ്പോൾ ഇവിടെ കോഴ്സ് പൂർത്തിയാവുകയാണ് ഞാൻ വാഗ്ദാനം ചെയ്ത എല്ലാ പേപ്പറുകളും ഞാൻ തരും അവ ഞാൻ അപ്ലോഡ് ചെയ്യും അതിനുപുറമേ മൈക്രോ ചാനൽ സാങ്കേതികവിദ്യയെ കുറിച്ചുള്ള രണ്ട് ചെറിയ മൊഡ്യൂളുകൾ കൂടി ഞാൻ നൽകും എം ഇ എം എസ് ഫാബ്രിക്കേഷന്റെ ഇപ്പോൾ ഉപയോഗത്തിലുള്ള മറ്റുചില സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ അതു നിങ്ങളെ സഹായിക്കും അതിനും പുറമേ മൈക്രോ ഇലക്ട്രോഡ് അറേ യെ കുറിച്ചുള്ള ചില പേപ്പറുകളും നിങ്ങൾക്ക് ലഭിക്കും അത് സെൽ കൾച്ചറിൽ ഇലക്ട്രിക്കൽ ഉത്തേജനം നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ്